പ്രൊഫസർബാല ഞാൻ എന്താണ് ചെയ്യുവാൻ പോകുന്നത് അശ്വിൻ എനിക്ക് എട്ട് ആഴ്ച സമയം തന്നിരിക്കുന്നു ഈ കോഴ്സ് റെക്കോർഡ് ചെയ്യുന്നതിനുവേണ്ടി എന്തിനെ സംബന്ധിച്ച് ഷൂസിനെ സംബന്ധിച്ച് ആരുടെ ഷൂസ് സ്ത്രീകളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ പല സൈസിലുള്ള ഷൂസ് എനിക്ക് ആശയങ്ങൾ വേണം ഇപ്പോൾ ഒരു ആശയം വരുന്നില്ല ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യാം ആശയങ്ങൾവന്നിരിക്കുന്നു എനിക്ക് എൻറെ കൂട്ടുകാരനെ വിളിക്കാം എൻറെ സ്റ്റുഡൻറ് വിളിക്കാം എൻറെ സ്റ്റുഡൻറ് Curio നെ വിളിക്കാം ആദ്യം അവനെ വിളിക്കാം Curio നെ വിളിക്കാം Curio ഫോൺ എടുക്കു എങ്ങനെ ഇരിക്കുന്നു Internship എങ്ങനെ ഇരിക്കുന്നു വളരെ നല്ലത് ഒരു സഹായം വേണം ഒരു കോഴ്സ് ഡിസൈൻ തിങ്കിംഗ് നിനക്ക് അതിനെപ്പറ്റി വല്ല ആശയങ്ങളും ഉണ്ടോ എനിക്ക് ആ കോഴ്സ് വീഡിയോസ് വേണം സഹായിക്കുമോ എപ്പോൾ ആരംഭിക്കാൻ കഴിയും നിങ്ങളുടെ കഥ മനോഹരമായിരിക്കുന്നു ഒക്കെ കാത്തിരിക്കൂ ഒരുനിമിഷം കാത്തിരിക്കൂ ഒരു വർഷം കാത്തിരിക്കൂ ഫ്ലാഷ് ബാക്ക്